ആശംസകൾ ടെയിൽ ന്റെ മൊഡ്യൂൾ 1 ന്റെ യൂണിറ്റ് 10 ലേക്ക് സ്വാഗതം കഴിഞ്ഞ യൂണിറ്റിൽ ഞങ്ങൾ ആരംഭിച്ച പഠനത്തിന്റെ ടാക്സോണമി പരിശോധിക്കാൻ പോകുന്നു ശേഷിക്കുന്ന അവബോധ തലങ്ങളിലേക്ക് ഞങ്ങൾ നോക്കാൻ പോകുന്നു മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ ടാക്സോണമി ആവശ്യകത അവതരിപ്പിച്ചു പഠന ടാക്സോണമി ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനും പ്രബോധനം ഫലപ്രദമായി നടത്തുന്നതിനും ഒരു ഭാഷ നൽകുമെന്നും ഒപ്പം സമന്മാരുമായി ആശയവിനിമയം നടത്തുന്നതിനും സംവദിക്കുന്നതിനും ഒരു ഭാഷ നൽകുമെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു അതിലൂടെ രണ്ട് ആളുകൾ രണ്ട് ഫാക്കൽറ്റി അംഗങ്ങൾ ചർച്ചചെയ്യുമ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു നിരവധി ടാക്സോണമി ഉണ്ട് അവ വിവിധ സർവകലാശാലകൾ വിവിധ സംഘടനകൾ പിന്തുടരുന്നു എന്നാൽ ഇപ്പോൾ ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി ഇന്ത്യ വടക്കേ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ പലരും ഉപയോഗിക്കുന്നു ഈ ടാക്സോണമി അനുസരിച്ച് പ്രസക്തമായ മൂന്ന് ഡൊമെയ്നുകൾ ഉണ്ട് കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടർ എന്നിവ ഞങ്ങൾ പ്രധാനമായും കോഗ്നിറ്റീവ് ഡൊമെയ്നാണ് നോക്കുന്നത് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുക അറിവിലേക്ക് പരിവർത്തനം ചെയ്യുക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ കോഗ്നിറ്റീവ് ഡൊമെയ്നിന് രണ്ട് മാനങ്ങളുണ്ട് അവബോധ നിലകൾ അല്ലെങ്കിൽ പ്രക്രിയകൾ വിജ്ഞാന വിഭാഗങ്ങൾ അതിനാൽ മുമ്പത്തെ യൂണിറ്റിലെ രണ്ട് അവബോധ തലങ്ങളായ ഓർമ്മിക്കുക മനസിലാക്കുക എന്ന പ്രാഥമിക അവബോധ തലങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ പ്രയോഗിക്കുക വിശകലനം ചെയ്യുക വിലയിരുത്തുക സൃഷ്ടിക്കുക എന്നിവയുൾപ്പെടെയുള്ള അവബോധ നിലകൾ മനസ്സിലാക്കുക എന്നതാണ് ഈ യൂണിറ്റ് 10 ന്റെ പ്രധാന ഫലം ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള നാല് വ്യത്യസ്ത അവബോധ തലങ്ങളാണിവ ഇപ്പോൾ പ്രയോഗിക്കുക എന്നതിൽ നിന്ന് ആരംഭിക്കാം അതെന്തു ചെയ്യും അഭ്യാസങ്ങൾ ചെയ്യുന്നതിനോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ നടപടിക്രമങ്ങൾ ഉപയോഗിക്കുക അതിനർത്ഥം നിങ്ങൾ ചില പ്രോസസ്സുകൾ പ്രയോഗിക്കുന്നു എന്നാണ് ആ നടപടിക്രമം നിങ്ങളോട് വിശദീകരിച്ചു ഒരുപക്ഷേ ഓരോ ഘട്ടവും എന്തുകൊണ്ട് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസിലാക്കാം പക്ഷേ നിങ്ങൾക്ക് സാധാരണയായി നൽകിയ ഇത് ഒരു പ്രശ്നം പരിഹരിക്കാൻ നടപടിക്രമം പ്രയോഗിക്കേണ്ടതുണ്ട് നടപടിക്രമ വിജ്ഞാനം എന്ന് ഞങ്ങൾ വിളിക്കുന്നതുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എക്സിക്യൂട്ട് ചെയ്യുക നടപ്പിലാക്കുക എന്ന രണ്ട് ഉപ പ്രക്രിയകളുടെ വിശാലമായ രണ്ട് വിഭാഗങ്ങളുണ്ട് നിർണ്ണയിക്കൽ കണക്കുകൂട്ടുക കണക്കാക്കുക വിലമതിക്കുക പരിഹരിക്കുക വരയ്ക്കുക ബന്ധപ്പെടുത്തുക പരിഷ്ക്കരിക്കുക മുതലായവ പോലുള്ള പ്രവർത്തന ക്രിയകൾ കൊണ്ട് ഞങ്ങൾ അവ രണ്ടിനെ ബന്ധപ്പെടുത്തുന്നു നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ കൂടി നൽകാൻ കഴിയും ഇപ്പോൾ വ്യത്യാസം നോക്കാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുക നടപ്പിലാക്കുക എന്നിവയിലേക്ക് മടങ്ങിവരുന്നതിനു മുമ്പ് ചില ഉദാഹരണങ്ങൾ നോക്കാം എഞ്ചിനീയറിംഗിന്റെ വിവിധ ശാഖകളിൽ നിന്നുള്ള പരീക്ഷാ പേപ്പറുകളിൽ നിന്നോ ടെസ്റ്റ് പേപ്പറുകളിൽ നിന്നോ എടുത്ത പ്രശ്നങ്ങതരങ്ങൾ ഇവയാണ് ഇപ്പോൾ നിങ്ങൾ വിശദാംശങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാൽ ഇവിടെ 50 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 200 ടൺ മോട്ടോർ കോച്ച് എടുത്ത സമയം കണക്കാക്കുക എന്നിട്ട് ഇത് ചില നിബന്ധനകളിൽ ആരംഭിക്കുകയും പരിഗണിക്കേണ്ട ചില പാരാമീറ്ററുകൾ നിങ്ങൾക്ക് നൽകുകയും വിവിധ നമ്പറുകൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ കണക്കാക്കണം നിങ്ങൾ എന്താണ് കണക്കാക്കുന്നത് അത് എടുത്ത സമയം കണക്കാക്കുക അതിനർത്ഥം നിരവധി വേരിയബിളുകളുണ്ടെന്നും നിരവധി ഇൻപുട്ട് വേരിയബിളുകൾ അല്ലെങ്കിൽ പാരാമീറ്ററുകൾ ഉണ്ട് കൂടാതെ അജ്ഞാതമായ ഒരു വേരിയബിൾ ഉണ്ട് തന്നിരിക്കുന്ന വേരിയബിളുകളെയും പാരാമീറ്ററുകളെയും അടിസ്ഥാനമാക്കിയാണ് സമയം കണക്കാക്കേണ്ടത് അതിനാൽ പൊതുവെ പ്രയോഗത്തിൽ ഉൾപ്പെടുന്നത് അതാണ് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് അറിയുന്ന ചില വേരിയബിളുകളും അജ്ഞാതമായ ചില വേരിയബിളുകളും ഉണ്ടെന്നാണ് ഇതിനർത്ഥം അജ്ഞാത വേരിയബിളുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിവയും ആകാം അറിയപ്പെടുന്ന വേരിയബിളുകളുടെ എണ്ണം വളരെയധികം ഉണ്ടാകാം അതിനാൽ അറിയപ്പെടുന്ന വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ അജ്ഞാത വേരിയബിളുകൾ നിർണ്ണയിക്കുക എന്നതാണ് പ്രധാന ദൌത്യം അതാണ് ഞങ്ങൾ കാണുന്ന എഞ്ചിനീയറിംഗിലെ പ്രയോഗിക്കുക എന്ന പ്രവർത്തനം മറ്റൊരു പ്രശ്നം ഒരു 1000 സിസി കോർ കട്ടർ വീണ്ടും എല്ലാ വിവരണങ്ങളും പാരാമീറ്ററുകളും നൽകിയിട്ടുണ്ട് ഒടുവിൽ നിങ്ങൾ ബൾക്ക് യൂണിറ്റ് ഭാരം ഡ്രൈ യൂണിറ്റ് ഭാരം ശൂന്യ അനുപാതം സാച്ചുറേഷൻ ഡിഗ്രി എന്നിവ നിർണ്ണയിക്കണം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നാല് അജ്ഞാത വേരിയബിളുകൾ ഉണ്ട് അറിയപ്പെടുന്ന ചില വേരിയബിളുകൾ എല്ലാം നൽകിയിരിക്കുന്നു യൂണിറ്റ് ഭാരം ഡ്രൈ യൂണിറ്റ് ഭാരം ശൂന്യ അനുപാതം സാച്ചുറേഷൻ ഡിഗ്രി എന്നീ നാല് അജ്ഞാത വേരിയബിളുകളും നിർണ്ണയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കണക്കാക്കേണ്ടതുണ്ട് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് ട്രാൻസ്ഫോർമറിന്റെ ചില പാരാമീറ്ററുകൾ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചില വേരിയബിളുകൾ നൽകിയിരിക്കുന്നു അവസാനമായി നിങ്ങൾ 0 8 ന്റെ ലാഗ്ഗിങ്ങ് പവർ ഫാക്ടറിൽ ഫുൾ ലോഡ് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടെത്തണം ഇവിടെ അജ്ഞാതമായ ഒരു വേരിയബിൾ മാത്രമേയുള്ളൂ അതായത് വോൾട്ടേജ് റെഗുലേഷൻ ഇലക്ട്രോണിക്സിലെ മറ്റൊരു പ്രശ്നം 49 ഹെർട്സ് മുതൽ 51 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ബാൻഡിലെ സിഗ്നലുകൾക്ക് 20 ഡിബിയേക്കാൾ മികച്ച അറ്റനുവേഷൻ നൽകുന്നതിന് ഒരു നോച്ച് ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യുക പാസ് ബാൻഡിലെ സിഗ്നലുകൾക്ക് 6 dB ഗേയ്ൻ ശരി അതിനാൽ വീണ്ടും അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു നോച്ച് ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യുകയാണെന്നാണ് അതിനർത്ഥം നോച്ച് ഫിൽട്ടറിന് സർക്യൂട്ട് ഉണ്ടെന്നും സർക്യൂട്ടിന്റെ ഒരുതരം പാരാമീറ്ററുകൾ ഉണ്ടാകുമെന്നും ആദ്യം ആ ഫിൽട്ടർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് ഏത് തരം സർക്യൂട്ട് ആയിരിക്കും തുടർന്ന് നോച്ച് ഫിൽട്ടറുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുടെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾ നിർണ്ണയിക്കണം മുമ്പത്തെ പ്രശ്നവും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കണാം ഒന്നാമതായി ഇവിടെ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യം നോച്ച് ഫിൽട്ടർ ഘടന എന്താണെന്ന് അറിയണം അതിനർത്ഥം നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ കഴിയണം എന്നിട്ട് നൽകിയ വാലൃൂ അടിസ്ഥാനമാക്കി അതിന്റെ പാരാമീറ്ററുകൾ നിർണ്ണയിക്കണം അതിനാൽ നോച്ച് ഫിൽട്ടറിന്റെ ഘടന നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതിനാൽ ഇത് മറ്റെതിനെ അപേക്ഷിച്ച് രണ്ട് ഘട്ടങ്ങളായുള്ള പ്രക്രിയയാണെന്ന് തോന്നുന്നു ശരി ഇവ പ്രവർത്തന ക്രിയകളുടെ സാമ്പിളുകളാണ് നമുക്ക് അല്പം പിന്നോട്ട് പോയി ഈ രണ്ട് പ്രവർത്തനങ്ങൾ നോക്കാം എക്സിക്യൂട്ട് ചെയ്യുക നടപ്പിലാക്കുക നടപ്പിലാക്കുക എന്നതിനർത്ഥം നിങ്ങൾ കൃത്യമായി എന്താണ് കണക്കാക്കേണ്ടതെന്ന് വളരെ വ്യക്തമാണ് അതിനർത്ഥം നടപടിക്രമം ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചില ഫോർമുലകൾ ഓർമ്മിക്കുകയും അത് നടപ്പിലാക്കുകയും വേണം എന്നാൽ ഏത് തരം ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് അത് പരോക്ഷമായതോ അറിയപ്പെടുന്നതോ ആണ് എക്സിക്യൂട്ട് ഭാഗത്ത് പ്രശ്ന വിവരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഏത് നടപടിക്രമമാണ് പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടെത്തുകയും നടപടിക്രമം പ്രയോഗിക്കുകയും വേണം നടപ്പിലാക്കുക എന്നത് നടപടിക്രമമാണ് അതേസമയം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നടപടിക്രമമാണ് പ്രയോഗിക്കേണ്ടതെന്ന് തിരിച്ചറിയുകയും നടപടിക്രമം പ്രയോഗിക്കുകയും വേണം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് അൽപ്പം ഉയർന്ന നിലയിലുള്ള പ്രവർത്തനമാണ് അവബോധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനേക്കാൾ അല്പം ഉയർന്നതാണ് എക്സിക്യൂട്ട് രണ്ട് ഘട്ടങ്ങളായുള്ള പ്രക്രിയയാണ് ഇപ്പോൾ പ്രയോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സാധാരണഗതിയിൽ ഒരു സങ്കീർണതയുമില്ല ഉദാഹരണത്തിന് ചാപ്റ്റർ അവസാനഭാഗപ്രശ്നങ്ങൾ കൂടുതലും പ്രയോഗത്തിന്റെ വിഭാഗത്തിൽ വരും ഇപ്പോൾ അടുത്തത് അടുത്ത ലെവൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് വിശകലനം ചെയ്യുകയാണ് ബ്ലൂമിന്റെ ടാക്സോണമി ആൻഡേഴ്സൺ ബ്ലൂമിന്റെ ടാക്സോണമി ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് വിശകലനം ചെയ്യാം വിശകലനത്തിൽ മെറ്റീരിയൽ അതിന്റെ ഘടകഭാഗങ്ങളായി വിഭജിക്കുകയും ഭാഗങ്ങൾ പരസ്പരവും മൊത്തത്തിലുള്ള ഘടനയുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിർണ്ണയിക്കുകയും ചെയ്യുന്നു അതാണ് വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ ഇവയിൽ വിവേചിക്കുകയും ഉൾപ്പെടും അതിനർത്ഥം നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും അവതരിപ്പിച്ചു എന്നാണ് നിങ്ങൾക്ക് പത്രത്തിലെ ഒരു ലേഖനം നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ പ്രസക്തമായ ഭാഗങ്ങളോ പ്രധാന ഭാഗങ്ങളോ അവതരിപ്പിച്ച മെറ്റീരിയലിന്റെ അപ്രധാന ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയണമെന്നും ഞങ്ങൾ പറയട്ടെ ഒരാൾക്ക് എല്ലായ്പ്പോഴും അത്തരം വിശകലനം ചെയ്യാൻ കഴിയും എന്താണ് പ്രധാനം എന്താണ് പ്രധാനമല്ലാത്തത് അതിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അവതരിപ്പിച്ച മെറ്റീരിയലിന്റെ പ്രധാന ഭാഗമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുമ്പോഴേക്കും പല ലേഖനങ്ങളിലും അപ്രധാനമായ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കാരൃങ്ങൾ ധാരാളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഓർഗനൈസു ചെയ്യുക എന്നും നിങ്ങൾക്ക് പറയാം ഘടന സമന്വയിപ്പിക്കുക സമന്വയം കണ്ടെത്തുക രൂപരേഖ തുടങ്ങിയവ ഒരു ഘടനയ്ക്കുള്ളിൽ ഘടകങ്ങൾ എങ്ങനെ യോജിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർണ്ണയിക്കുക അത് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമാണ് തുടർന്ന് നിങ്ങൾ ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡീകോൺസ്ട്രക്റ്റ് അതിനർത്ഥം ഒരു സാധാരണ പത്രം ലേഖനം വീണ്ടും എടുക്കാം പത്രം അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ രചയിതാവ് അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്താണ് കാഴ്ചപ്പാട് എന്തിലേക്കാണ് ചായ്വ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവതരിപ്പിച്ച മെറ്റീരിയലിന് അടിസ്ഥാനമായ ഉദ്ദേശ്യം എന്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾ വിശകലനം ചെയ്യുന്നതിനുള്ള മികച്ച ഉദാഹരണങ്ങളാണ് പക്ഷേ എഞ്ചിനീയറിംഗ് തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആണ് ഞങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം ഇപ്പോൾ ചില വിശകലന പ്രവർത്തനങ്ങൾ വിമർശനാത്മകമായി വായിക്കുക പാഠങ്ങൾ വ്യക്തമാക്കുകയോ വിമർശിക്കുകയോ ചെയ്യുക അനുമാനങ്ങൾ പരിശോധിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുക അപ്രസക്തമായ വസ്തുതകളിൽ നിന്ന് പ്രസക്തമായവ വേർതിരിക്കുക വിശ്വസനീയമായ അനുമാനങ്ങൾ നടത്തുക പ്രവചനം അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ നടത്തുക കാരണങ്ങൾ നൽകുകയും തെളിവുകളും ആരോപിത വസ്തുതകളും വിലയിരുത്തുകയും ചെയ്യുക വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിക പ്രത്യാഘാതങ്ങളും പരിണതഫലങ്ങളും പര്യവേക്ഷണം ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രത്യേക പാരാമീറ്റർ മാറ്റുകയാണെങ്കിൽ സിസ്റ്റത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നുണ്ടാകാം ഇത് വളരെ ലളിതമാണ് ഉദാഹരണത്തിന് തന്നിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഞാൻ റെസിസ്റ്റർ മൂല്യം മറ്റൊരു മൂല്യത്തിലേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ വിശകലനമോ അല്ലെങ്കിൽ പ്രയോഗമോ ആ ചോദ്യം പോലുള്ള ഒരു ലളിതമായ സംഗതിയിൽ എക്സ്1 മൂല്യത്തിൽ നിന്ന് എക്സ്2 എന്ന മൂല്യത്തിലേക്ക് പാരാമീറ്റർ മാറുമ്പോൾ ഔട്ട്പുട്ട് നിർണ്ണയിക്കുന്നു അത് വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് പ്രായോഗികമായി പരിഗണിക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി സങ്കീർണ്ണമായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ വിവക്ഷകൾ വളരെ വ്യക്തമല്ലാത്തപ്പോൾ നിങ്ങൾ പ്രസക്തമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പര്യവേക്ഷണം ചെയ്യണം കൂടാതെ സാമാന്യവൽക്കരണങ്ങൾ പരിഷ്കരിക്കുകയും ലളിതവൽക്കരണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക ഒരാളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കുക വിശ്വാസ വാദങ്ങളോ സിദ്ധാന്തങ്ങളോ സൃഷ്ടിക്കുക അല്ലെങ്കിൽ പര്യവേക്ഷണം ചെയ്യുക പ്രശ്നങ്ങൾ നിഗമനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ വ്യക്തമാക്കുക മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക അതും ഒരു വിശകലന പ്രവർത്തനമാണ് എന്തെങ്കിലും വിലയിരുത്തുന്നതിന് നിങ്ങൾ ഏത് തരം മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ മൂല്യങ്ങളെയും മാനദണ്ഡങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ അതിനാൽ നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങൾ വ്യക്തമാക്കുന്നതിൽ പ്രവർത്തനം ഉൾപ്പെടുന്നു മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിന് അളവുകോൽ ആവശ്യമാണ് വിവര സ്രോതസ്സുകളുടെ വിശ്വാസ്യത വിലയിരുത്തൽ കാരണങ്ങൾ അല്ലെങ്കിൽ സുപ്രധാന ചോദ്യങ്ങൾ ആഴത്തിൽ ഉയർത്തുകയും പിന്തുടരുകയും ചെയ്യുക വാദങ്ങൾ വ്യാഖ്യാനങ്ങൾ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ വ്യക്തമാക്കുക അതിനാൽ വിശകലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ഉണ്ട് പക്ഷേ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഞങ്ങൾ പ്രശ്നത്തിലാകുന്നത് ആദ്യത്തെ കാര്യം വിശകലനം എന്ന പദം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു അദ്ധ്യാപകരെന്ന നിലയിലും വിദ്യാർത്ഥികളെന്ന നിലയിലും ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു എന്നാൽ ബ്ലൂമിന്റെ ടാക്സോണമിക്ക് വളരെ വ്യക്തമായ അർത്ഥമുണ്ട് അതിനാൽ നിങ്ങൾ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വിശകലനം എന്ന പദം നിർവചിച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ ഉദാഹരണത്തിന് ഒരു ഘടന വിശകലനം ചെയ്യുക അല്ലെങ്കിൽ സർക്യൂട്ട് വിശകലനം ചെയ്യുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ എന്താണ് ഞങ്ങൾ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ആവശ്യപ്പെടുന്നത് അറിയപ്പെടുന്ന വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ അജ്ഞാതമായ ചില വേരിയബിളുകൾ നിർണ്ണയിക്കാനാണ് അതും നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കോമൺസെൻസിക്കൽ രീതിയിൽ ഒരു അയഞ്ഞ രീതിയിൽ വിശകലനമായി ഉപയോഗിക്കുന്നു പക്ഷേ നിങ്ങൾ ബ്ലൂമിന്റെ ടാക്സോണമി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നിർദ്ദിഷ്ട രീതിയിൽ വിശകലനം ഉപയോഗിക്കാൻ എല്ലാ ആളുകളും സ്വയം പരിശീലിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ അത് ശരിയാക്കുകയാണെങ്കിൽപ്പോലും ബ്ലൂം ടാക്സോണമി വിവരിച്ച അർത്ഥത്തിൽ മാത്രം വിശകലനം എന്ന പദം ഉപയോഗിക്കാൻ ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നുവെന്ന് പറയട്ടെ എന്നാൽ പരിമിതമായ സമയത്തിൽ എഴുതുന്ന പരീക്ഷയിൽ ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് കഴിയുമോ ഞങ്ങളുടെ മിക്ക വിലയിരുത്തലും മൂല്യനിർണ്ണയവും പരിമിതമായ സമയ പരീക്ഷകളുടെ രൂപത്തിലാണ് ഇത് ക്ലാസ് ടെസ്റ്റാണെങ്കിൽ ഒന്നര മണിക്കൂർ ഇത് അവസാന സെമസ്റ്റർ പരീക്ഷയാണെങ്കിൽ ഇത് സാധാരണയായി ഏകദേശം 3 മണിക്കൂറാണ് നിങ്ങൾക്ക് പ്രത്യേകമായി കുറച്ച് ലാബ് പരീക്ഷയും ഉണ്ടായിരിക്കാം എന്നാൽ വിലയിരുത്തലിന്റെ ഭൂരിഭാഗവും എഴുത്തുപരീക്ഷയുടെ രൂപത്തിലാണ് ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും പ്രത്യേക ചോദ്യത്തിന് 3 മണിക്കൂർ പരീക്ഷയിൽ അരമണിക്കൂറിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല കാരണം ഒരു പരീക്ഷാ പേപ്പറിന് നിരവധി ചോദ്യങ്ങളുണ്ടാകും കൂടാതെ 10 മാർക്ക് ചോദ്യങ്ങൾക്ക് സാധാരണയായി അരമണിക്കൂറിൽ കൂടുതൽ എടുക്കേണ്ടതില്ല വിശകലന വിഭാഗത്തിൽപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ വിശദമായ വിവരണം എഴുതണം അനുമാനങ്ങൾ പൂർത്തിയായി എന്ന് പറഞ്ഞ് വിശകലനത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഡാറ്റ പൂർത്തിയായിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കേണ്ട മുഴുവൻ ചോദ്യങ്ങളും പൊതുവായി അരമണിക്കൂറിലധികം സമയമെടുക്കും അതിനാൽ പരിമിതമായ സമയത്തിൽ എഴുതുന്ന പരീക്ഷയിൽ വിശകലന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് എളുപ്പമല്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കേസ് പഠനങ്ങൾ പ്രോജക്റ്റുകൾ ടേം പേപ്പറുകൾ ഫീൽഡ് പഠനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസൈൻമെന്റുകളിൽ വിശകലനപ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താം വിശകലനത്തിൽ ഞങ്ങൾ സംസാരിച്ച പല പ്രവർത്തനങ്ങളും എഞ്ചിനീയറിംഗിന് വളരെ സാധാരണമല്ല എന്നതാണ് മറ്റൊരു പ്രശ്നം സാമൂഹ്യശാസ്ത്രത്തിലും മാനവികതയിലും ഉള്ള വിഷയങ്ങളിൽ അവ വളരെ സാധാരണമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാത്തത് എഞ്ചിനീയറിംഗ് സയൻസ് വിഷയങ്ങൾ അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾ ഒരു 4 വർഷത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന തലത്തിൽ അവ അതിർത്തികളെക്കുറിച്ച് പര്യവേക്ഷണം ചെയ്യുന്നില്ല എന്ന അർത്ഥത്തിൽ തികച്ചും ഘടനാപരമായ വിഷയങ്ങളാണ് മാത്രമല്ല ഞങ്ങൾ വളരെ പരിമിതമായ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് അതിനാൽ മുഴുവൻ വിഷയവും നന്നായി ഓർഗനൈസു ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതേസമയം ഏതെങ്കിലും സോഷ്യൽ സയൻസ് ഹ്യുമാനിറ്റീസ് വിഷയങ്ങളിലെ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ മൂല്യത്തകർച്ച നടത്തുന്നുവെന്ന് ഇതിനർത്ഥമില്ല പക്ഷേ നാം കൃത്യമായി പ്രവർത്തിക്കുന്ന നമ്മുടെ എഞ്ചിനീയറിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഇവാലുവേറ്റ് എന്ന വാക്കിലേക്ക് വരിക അത് അടുത്തതാണ് ഒന്ന് സംഭവിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മൂന്നോ നാലോ ഇതരമാർഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും അതിനെ വിലയിരുത്തൽ പ്രക്രിയ എന്ന് വിളിക്കുന്നു അത് മാനദണ്ഡങ്ങളും അളവുകോലുകളും അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുക അത് പലതും ആകാം ശരി മാനദണ്ഡം ഗുണനിലവാരം ഫലപ്രാപ്തി കാര്യക്ഷമത അല്ലെങ്കിൽ സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാനദണ്ഡങ്ങൾ ഗുണപരമോ അളവോ ആകാം എന്റെ പക്കൽ എ ബി സി മൂന്ന് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ ഇവയിൽ ഒന്ന് തിരഞ്ഞെടുക്കാമോ ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ കാര്യം എനിക്ക് ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പട്ടികപ്പെടുത്തണം ഞാൻ എന്ത് മാനദണ്ഡം തിരഞ്ഞെടുക്കുന്നു അതിനാൽ മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മൂല്യനിർണ്ണയ പ്രക്രിയയുടെ ഭാഗമാണ് ഒരു ഉൽപ്പന്നത്തിന്റെ നിറം നിങ്ങൾക്ക് പരിഗണിക്കാം ഉൽപ്പന്നത്തിന്റെ നിറം കൊണ്ട് വലിയ വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്ക് പരിഗണിക്കാം അതിനാൽ നിങ്ങൾ ആ പ്രത്യേക മാനദണ്ഡം വേർപെടുത്തി സൂക്ഷിക്കും എന്നാൽ വളരെ വ്യക്തമായി പറഞ്ഞ കാരണങ്ങളാൽ ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തേണ്ടതുണ്ട് ആദ്യം നിങ്ങൾ ഒരു മാനദണ്ഡം തിരിച്ചറിയണം അവയിൽ ചിലത് ഗുണപരമോ അല്ലെങ്കിൽ ചിലത് അളവിലുള്ളതോ ആണ് പിന്നെ എന്ത് സംഭവിക്കും നിങ്ങളുടെ മുന്നിലുള്ള പരിഹാരങ്ങളിൽ ഓരോന്നിനും നിങ്ങൾ ഈ മാനദണ്ഡങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒന്ന് അതിന്റെ ഗുണമേന്മ ആകാം A ക്ക് ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുണ്ടെങ്കിലും B കൂടുതൽ ഫലപ്രദമാണ് സി കൂടുതൽ കാര്യക്ഷമമാണ് അങ്ങനെ അതിനാൽ സംഭവിക്കുന്നത് മൂന്നോ നാലോ പരിഹാരങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക പരിഹാരം തിരഞ്ഞെടുക്കുന്നത് നിർണ്ണയിക്കാൻ വീണ്ടും അവ ഒരൊറ്റ സംഖ്യയിലേക്ക് കൃത്യമായി വിവർത്തനം ചെയ്യുന്നില്ല എന്നതാണ് ഒന്നിലധികം ഉള്ളപ്പോൾ ചില മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോന്നും നല്ലതാണ് നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കേണ്ട മറ്റൊരു അടുത്ത ലെവൽ മാനദണ്ഡവുമായി വീണ്ടും വരണം അതിനാൽ വലിയ പ്രശ് നങ്ങൾ നോക്കുമ്പോൾ ഒരു വിലയിരുത്തൽ പ്രക്രിയ വളരെ സങ്കീർണ്ണമായിരിക്കും നിങ്ങൾ വളരെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചോ സങ്കീർണ്ണമായ പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുക്കൽ ഒരു പാലം അല്ലെങ്കിൽ ഫ്ലൈഓവർ നിർമ്മിക്കുന്നത് പോലുള്ള വലിയ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലായെപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത് അവിടെയാണ് അല്ലെങ്കിൽ ഓരോരുത്തരും വ്യത്യസ്ത മാനദണ്ഡങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതിനാൽ നിരവധി വിവാദങ്ങൾ വരും അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ക്രിയകൾ നിങ്ങൾ പരിശോധിക്കുകയാണ് പരിശോധിക്കൽ എന്നാൽ പരിശോധന കണ്ടെത്തൽ നിരീക്ഷിക്കൽ ഏകോപനം അല്ലെങ്കിൽ വിമർശിക്കൽ എന്നാണ് കൃത്യത പര്യാപ്തത ഉചിതത്വം അല്ലെങ്കിൽ വ്യക്തത സമന്വയം സമ്പൂർണ്ണത സ്ഥിരത കൃത്യത മുതലായവ തീരുമാനിക്കുന്നു നിങ്ങൾ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നവയുടെ ഒരു കൂട്ടം നിങ്ങൾക്ക് ഉണ്ട് അതിനാൽ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ ചില മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും പരിഹാരങ്ങളിൽ ഈ മാനദണ്ഡങ്ങൾ പ്രയോഗിക്കുന്നതിനും ഒരു പ്രത്യേക പരിഹാരത്തിന്റെ മുൻഗണനയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വിലയിരുത്തുന്നു ഇപ്പോൾ അവസാന ആറാമത്തെ അവബോധ പ്രക്രിയ സൃഷ്ടിക്കുക സൃഷ്ടി എന്നത് ഘടകങ്ങളെ ഒന്നിച്ച് ചേർത്ത് സമന്വയിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായി മൊത്തത്തിൽ ഉൾക്കൊള്ളുക്കുന്നതാണ് ഘടകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് പക്ഷേ നിങ്ങൾ അവയെ ഒന്നിച്ച് ചേർത്ത് മറ്റൊരു ആകർഷണീയവും പ്രവർത്തനപരവുമായ സമ്പൂർണ്ണത രൂപപ്പെടുത്തുന്നു ഇതിന് മൂന്ന് വ്യത്യസ്ത തലങ്ങളുണ്ട് ഒന്ന് ജനറേറ്റുചെയ്യുന്നു നിങ്ങൾ എന്താണ് സൃഷ്ടിക്കുന്നത് സൃഷ്ടിയെ സിസ്റ്റങ്ങൾ ആശയങ്ങൾ മോഡലുകൾ സിദ്ധാന്തങ്ങൾ വിശദീകരണങ്ങൾ സാമാന്യവൽക്കരണം പരികല്പന പ്രവചനങ്ങൾ തത്ത്വങ്ങൾ പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ കഥകൾ എന്നിങ്ങനെ തരംതിരിക്കാം ഉദാഹരണത്തിന് ഒരു പരിശോധന പോലെ ലളിതമായ ഒരു കാര്യം എടുക്കുക ഒരു കഥ എഴുതുക സൃഷ്ടി എന്ന പദം അയഞ്ഞ അർത്ഥത്തിൽ പല തരത്തിൽ ഉപയോഗിക്കുന്നു എന്നാൽ ഒരു കഥ സൃഷ്ടിക്കുക എഴുതുക എന്നതാണ് ചോദ്യം ഇതിനകം ലഭ്യമായതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഥ എഴുതുക നിങ്ങൾ ഇതിനകം വായിച്ചതിൽ നിന്ന് ഇത് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കില്ല എന്നാൽ കുറഞ്ഞപക്ഷം അത് വ്യത്യസ്തമാണ് അതിനർത്ഥം നിങ്ങൾ ഒരു സ്റ്റോറി സൃഷ്ടിച്ചു എന്തെങ്കിലും സൃഷ്ടിച്ചു എന്നാണ് അതുപോലെ ഒരു പ്ലാൻ സൃഷ്ടിക്കുക എന്തെങ്കിലും ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുക കർശനമായി രൂപകൽപ്പന ചെയ്യുക എന്ന വാക്കിനർത്ഥം എന്തെങ്കിലും നിർമ്മിക്കാനുള്ള പദ്ധതി സൃഷ്ടിക്കുക എന്നാണ് ഒരു കസേര രൂപകൽപ്പന ചെയ്യാൻ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാം ഒരു കസേര രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ നിലവിലുള്ള ഒരു കസേര കൃത്യമായി അത് പകർത്തി തരാം അങ്ങനെയാണെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടുന്നില്ല ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും കോണുകൾ അല്ലെങ്കിൽ സന്ധികൾ അല്ലെങ്കിൽ ഞാൻ കസേര രൂപകൽപ്പന ചെയ്യുന്ന രീതി എന്നിവ മാറ്റുന്നു അതിനർത്ഥം നിങ്ങൾ എന്തെങ്കിലും നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി സൃഷ്ടിക്കുകയാണെന്നും അതിനെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെന്ന് വിളിക്കുന്നത് എന്നുമാണ് മൂന്നാമത്തേത് യഥാർത്ഥത്തിൽ "ഉൽപാദിപ്പിക്കുക" എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളോട് ഒരു മോഡൽ സൃഷ്ടിക്കാൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ കസേര സൃഷ്ടിക്കുക അല്ലെങ്കിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഒരു വിമാനത്തിന്റെ ഒരു മോഡൽ ഒരു വിമാനത്തിന്റെ ഏതെങ്കിലും ഭാഗം എന്തായാലും അത് സൃഷ്ടിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നിട്ട് നിങ്ങൾ വർക്ക് ഷോപ്പിൽ ഇരിക്കണം നിങ്ങളുടേതായി അവ നിർമ്മിക്കണം നിങ്ങൾ എങ്ങനെയെങ്കിലും നിർമ്മിക്കുമ്പോൾ അത് ഒരു അദ്വിതീയ രചനയായി മാറുന്നു അതിനർത്ഥം നിങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് അതാണ് സൃഷ്ടിക്കൽ പ്രക്രിയ ആദ്യം ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ സൃഷ്ടിയുടെ അർത്ഥമെന്താണെന്ന് നോക്കാം അല്ലെങ്കിൽ പ്രവർത്തനം സൃഷ്ടിക്കുന്നതിന് എന്റെ എഞ്ചിനീയറെ എങ്ങനെ പരിശീലിപ്പിക്കും തന്നിരിക്കുന്ന പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ നിർമ്മിക്കുന്നത് സൃഷ്ടിയിൽ ഉൾപ്പെടുന്നു തന്നിരിക്കുന്ന പ്രശ്നത്തിന് ഒന്നിലധികം ശരിയായ പരിഹാരങ്ങൾ ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്ന വസ്തുത അടുത്തതായി വരുന്നു പക്ഷേ തന്നിരിക്കുന്ന പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയണം പ്രയോഗം കർശനമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകം തന്നെ പാത അറിയാം മാത്രമല്ല നിങ്ങൾ പൊതുവായി ഒരൊറ്റ പോയിൻറ് പരിഹാരത്തിലേക്കാണ് വരുന്നത് ഒന്നിലധികം പരിഹാരങ്ങളല്ല അതിനാൽ സൃഷ്ടിക്കുക യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ ഒരു പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ ആളുകളെ പരിശീലിപ്പിക്കുന്നില്ല കാരണം സ്റ്റാൻഡേർഡ് കോഴ്സുകളിൽ അഭിസംബോധന ചെയ്യുന്ന മിക്ക പ്രശ്നങ്ങളും ഉത്തരങ്ങൾ അദ്വിതീയമായ അധ്യായ അവസാന പ്രശ്നങ്ങളാണ് ശരി ഓർക്കുക മനസിലാക്കുക വിശകലനം ചെയ്യുക വിലയിരുത്തുക സൃഷ്ടിക്കുക എന്നീ ആറ് അവബോധതലങ്ങളിലേക്ക് ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ട് പ്രായോഗികമായി എല്ലാ കോഗ്നിറ്റീവ് ആക്റ്റീവുകളും ഈ വിഭാഗങ്ങളിലൊന്നിൽ വരാമെന്ന് അവകാശപ്പെടാം അവ ശ്രേണിക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഒരു പ്രത്യേക പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രത്യേക പ്രശ്നം ഒന്നിലധികം പ്രവർത്തനതലങ്ങൾ ഉൾക്കൊള്ളുന്നു സൃഷ്ടിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്യുക നിങ്ങൾ അത് ഒരു പ്രശ്നമായി നൽകുകയാണെങ്കിൽ മുമ്പത്തെ അഞ്ച് അവബോധതലങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടാം ഇപ്പോൾ സംബന്ധപ്പെട്ട മറ്റ് രണ്ട് വാക്കുകൾ അതിലൊന്നാണ് വിമർശനാത്മക ചിന്ത മറ്റൊന്ന് പ്രശ്ന പരിഹാരമാണ് അതിനാൽ ഞങ്ങളുടെ പ്രശ്നം വിമർശനാത്മക ചിന്ത മറ്റൊരു പ്രവർത്തനമാണോ അതോ ഇത് ബ്ലൂമിന്റെ ആറ് അവബോധപ്രക്രിയകൾക്ക് കീഴിൽ ഉൾപ്പെടുന്നതായാണോ കണക്കാക്കുന്നത് ഈ വിമർശനാത്മക ചിന്തയെ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ പലരും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ അവരുടെ സ്വന്തം നിർവചനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ കർശനമായി പോകാം വിമർശനാത്മക ചിന്ത എന്നത് ആഴത്തിലുള്ള മനഃപൂർവവും ഘടനാപരവുമായ ചിന്താ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു അത് നേരിടുന്ന വെല്ലുവിളികൾക്ക് യഥാർത്ഥവും ക്രിയാത്മകവുമായ പരിഹാരം സൃഷ്ടിക്കുന്നതിനായി വിവരങ്ങൾ അനുഭവങ്ങൾ നിരീക്ഷണം നിലവിലുള്ള അറിവ് എന്നിവ വിശകലനം ചെയ്യുന്നതിനും സങ്കൽപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു വിശകലന പ്രക്രിയ പോലെയുള്ള വിവിധ ഭാഗങ്ങൾ ഇവിടെ നോക്കുക ആദ്യത്തെ വാചകം വിടുക വിവരങ്ങളും അനുഭവങ്ങളും വിശകലനം ചെയ്യുന്നതിനും സങ്കൽപ്പിക്കുന്നതിനും വിമർശനാത്മക ചിന്ത ലക്ഷ്യമിടുന്നു യഥാർത്ഥവും ക്രിയാത്മകവുമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നിരീക്ഷണങ്ങളും നിലവിലുള്ള അറിവും അതിനാൽ ഉദ്ദേശ്യം ഉപേക്ഷിക്കുക നിങ്ങൾ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ അത് വിശകലനം ചെയ്യുക വിവരങ്ങൾ അനുഭവങ്ങൾ തുടങ്ങിയവയെ സങ്കൽപ്പിക്കുകയാണ് അതിനാൽ വിശകലനം ചെയ്യുന്നതും സങ്കൽപ്പിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ആശയപരമായി നിങ്ങൾ ഒരു പുതിയ ആശയം സൃഷ്ടിക്കുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ നിലവിലുള്ള അറിയപ്പെടുന്ന ആശയങ്ങൾക്ക് കീഴിലാണ് നിങ്ങൾ അപ്പോൾ അത് മനസിലാക്കലോ വിശകലനം ചെയ്യലോ ആണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ വിശകലനം ചെയ്യുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നു സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം എന്നാൽ യഥാർത്ഥത്തിൽ കൽപനാശക്തിയുളള പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നില്ല ഇത് ആഴത്തിലുള്ള മനഃപൂർവവും ഘടനാപരവുമായ ചിന്തയെ സൂചിപ്പിക്കുന്നുവെന്ന് കാണുക ശരി ഇപ്പോൾ ഇതിന്റെ അടുത്ത വശത്തേക്ക് വരുന്നത് വിമർശനാത്മക ചിന്ത എന്നത് വ്യവസ്ഥാപിതവും സമഗ്രവുമാണ് ഈ അർത്ഥത്തിൽ ഒരു നിർദ്ദിഷ്ട പരിഹാരം പരിശോധിക്കുമ്പോൾ അതിന്റെ സ്വാധീനവും പരിണതഫലങ്ങളും അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മറ്റ് ഭാഗങ്ങളും പരിശോധിക്കുന്നു അതിനാൽ സിസ്റ്റത്തിന്റെ ഒരു തലത്തിലുള്ള പരിഹാരം മറ്റെവിടെയെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു വീണ്ടും ഒരു നിർദ്ദിഷ്ട പരിഹാരത്തിനായി നിങ്ങൾ വീണ്ടും പരിശോധിക്കുന്നു അതിനാൽ നിർദ്ദിഷ്ട പരിഹാരം പരിശോധിക്കുന്നത് വിലയിരുത്തൽ വിഭാഗത്തിന് കീഴിലാണ് അതിനാൽ വിമർശനാത്മക ചിന്തയിൽ വിശകലനവും വിലയിരുത്തലും ഉൾപ്പെടും എന്നാൽ ഒരു പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം ഇവിടെ മറ്റൊരു വശം വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് ലഭ്യമായ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ കഴിവുള്ളതും തുറന്നതും ന്യായവുമായ ഒരു മാനസികാവസ്ഥ ആവശ്യമാണ് അവ വരുത്തിയ അനുമാനങ്ങളെയും പരിമിതികളെയും കുറിച്ച് ബോധവാന്മാരാകണം ചിന്തിക്കാൻ തുറന്ന മനസ്സ് ന്യായവും തുറന്ന മനസ്സും ആവശ്യമാണ് അതാണ് വിമർശനാത്മക ചിന്തയുടെ ആവശ്യകതകൾ എന്നാൽ യഥാർത്ഥത്തിൽ വിമർശനാത്മക ചിന്ത എന്നത് ചിന്തയെ മെച്ചപ്പെടുത്തുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള കലയാണ് മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം അതിനാൽ ബ്ലൂമിന്റെ ടാക്സോണമിയിലെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിലൂടെ വിമർശനാത്മക ചിന്താഗതി ഉൾക്കൊള്ളുന്നുഉൾക്കൊള്ളും ഇപ്പോൾ പ്രശ്നം പരിഹരിക്കൽ രസകരമായ മറ്റൊന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് ധാരാളം പുസ്തകങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ അവയെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ചില ആളുകളിൽ നിന്ന് എവിടെയെങ്കിലും ചില നടപടിക്രമങ്ങൾ പ്രയോഗിക്കുന്നത് പ്രശ്ന പരിഹാരമായി കണക്കാക്കപ്പെടുന്നു അതാണ് നിങ്ങൾ ചെയ്യുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ ഇതിന് വിശകലനം ആവശ്യമായി വന്നേക്കാം ഇതിന് വിലയിരുത്തൽ ആവശ്യമായി വരാം അതും പ്രക്രിയകൾ സൃഷ്ടിച്ചേക്കാം നാല് പ്രക്രിയകളും ഉൾപ്പെട്ടേക്കാം അല്ലെങ്കിൽ ചില പ്രക്രിയകൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അതിനാൽ ഫലപ്രദമായി ഞങ്ങൾ നോക്കുമ്പോഴും പ്രശ്നം പരിഹരിക്കലും ബ്ലൂമിന്റെ ടാക്സോണമിക്ക് കീഴിലാണ് ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ വാഗ്ദാനം ചെയ്യുന്ന മിക്ക കോഴ്സുകളും നന്നായി നിർവചിക്കപ്പെട്ട ചട്ടക്കൂടുകളിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശരി ആദ്യത്തെത് അതാണ് എന്തെങ്കിലും സാധുതയുള്ളതാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് കൂടുതൽ അവ്യക്തതയില്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന തലത്തിലെ നേരിട്ടുള്ള മാർഗ്ഗമാണിത് ഇത് നന്നായി നിർവചിക്കപ്പെട്ട ഒരു ചട്ടക്കൂടാണ് ഓപ്പൺ എന്റഡ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ കൂടുതലും പ്രോജക്റ്റുകളിലൂടെയാണ് ചിലപ്പോൾ അസൈൻമെന്റുകളിലൂടെ അവിടെ പരിഹരിക്കാനുള്ള സമയം ഒരു പ്രധാന പരിമിതിയല്ല പ്രായോഗികമായി പോലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാം ക്ലാസ് ടെസ്റ്റുകളിലെയും അവസാന സെമസ്റ്റർ പരീക്ഷകളിലെയും മൂല്യനിർണ്ണയ ഇനങ്ങൾ പ്രധാനമായും ഓർമ്മിക്കുക മനസിലാക്കുക അവബോധതലങ്ങളിൽ പ്രയോഗിക്കുക അതിനാൽ ഈ തലത്തിൽ പോലും നിങ്ങൾ പരീക്ഷാ പേപ്പറുകൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ എല്ലാം അല്ല പല പരീക്ഷാ പേപ്പറുകളും ഓർമ്മിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു പ്രയോഗത്തിന്റെ തലത്തിലേക്ക് വെയിറ്റേജിൽ വളരെ ചെറിയ ശതമാനം മാത്രമേ നൽകിയിട്ടുള്ളൂ ചിലപ്പോൾ 70 മുതൽ 80 വരെ ചോദ്യങ്ങൾ പോലും ഓർമ്മിക്കുന്ന ലെവലിൽ മാത്രമാണെന്ന് നിങ്ങൾ കണ്ടെത്തും കൂടാതെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഉയർന്ന പഠന ക്രമങ്ങൾ ആഴത്തിലുള്ള പഠനം അർത്ഥവത്തായ പഠനം എന്നിവ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പദങ്ങളാണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഉയർന്ന തലത്തിലുള്ള പ്രയോഗം തുടർന്ന് വിശകലനം ചെയ്യുക വിലയിരുത്തുക സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോൾ അസൈൻമെന്റുകൾ അവബോധതലങ്ങളിലുള്ള നിങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച കോഴ്സുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ നൽകുക പ്രയോഗിക്കുക വിശകലനം ചെയ്യുക വിലയിരുത്തുക സൃഷ്ടിക്കുക നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും കോഴ്സുകളിൽ വിമർശനാത്മക ചിന്തയുടെ ഒരു ഉദാഹരണം നൽകുക പരമാവധി 500 പദങ്ങളുടെ പ്രസ്താവന പ്രശ്നപരിഹാരമെന്താണെന്ന് നിങ്ങൾ മനസിലാക്കുന്ന രീതിയിലും അതുപോലെ തന്നെ വിമർശനാത്മക ചിന്താഗതി എന്താണെന്ന് വിശദീകരിക്കുന്നതിലും നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും കോഴ്സുകളിൽ പ്രശ്ന പരിഹാരത്തിന് ഒരു ഉദാഹരണം നൽകുക അടുത്ത യൂണിറ്റിൽ അറിവും അവബോധന പ്രക്രിയയും കോഗ്നിറ്റീവ് ഡൊമെയ്നിന്റെ രണ്ട് മാനങ്ങളാണെന്ന് ഞങ്ങൾ കണക്കാക്കിയതിനാൽ ഞങ്ങൾ അറിവിന്റെ വിഭാഗങ്ങളിലേക്ക് നീങ്ങും വസ്തുതാപരമായ ആശയപരമായ നടപടിക്രമ പരിജ്ഞാനമുള്ള നാല് വിജ്ഞാന വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ യൂണിറ്റ് തലത്തിൽ നോക്കും വളരെയധികം നന്ദി